ഈ സെഷനിലേക്ക് സ്വാഗതം കഴിഞ്ഞ സെഷനിൽ ഞങ്ങൾ റിഗ്രഷൻ ടെസ്റ്റിംഗിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു റിഗ്രഷൻ ടെസ്റ്റിംഗ് ഒരു പ്രധാന തരം ടെസ്റ്റിംഗാണെന്ന് ഞങ്ങൾ കണ്ടു അവിടെ ഓരോ മാറ്റത്തിനും ശേഷം സോഫ്റ്റ്വെയറിന്റെ മാറ്റമില്ലാത്ത ഭാഗം പരിശോധിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ ചില കോഡുകളുടെ ചില വരികൾക്ക് മാത്രമേ മാറ്റം സംഭവിക്കുകയുള്ളൂ കൂടാതെ പതിനായിരക്കണക്കിന് ലൈനുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ലൈൻ കോഡുകൾ മാറുകയില്ല എന്നാൽ ആ ഭാഗങ്ങളെല്ലാം നേരത്തെ പാസ്സ് ചെയ്തെങ്കിലും മാറ്റമില്ലാതെ ഞങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഡിപെൻഡെൻസി ആണ് വേരിയബിൾ വാല്യു പ്രൊപൊഗേഷൻ കാരണം ഒരു മാറ്റം മാറ്റമില്ലാത്ത ഭാഗത്ത് പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം സോഫ്റ്റ്വെയറിലൂടെയും സർഫേസ് എഡ്ജ് ബഗുകളിലൂടെയും ചില കോഡ് പ്രൊപൊഗേറ്റ് ചെയ്യുന്ന സമയത്ത് മാറ്റം വരുത്തുന്ന ചില മൂല്യം തുടർന്ന് സോഫ്റ്റ്വെയർ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന സെറ്റ് അപ്പ് ടെസ്റ്റ് കേസുകൾ ഒബ്സൊലീറ്റ് ആയതോ ഇൻവാലിഡ് ആയതോ ആയ ടെസ്റ്റ് കേസുകളായി വിഭജിക്കാനാകുമെന്ന് ഞങ്ങൾ കണ്ടു റിഡൻഡെന്റ് ടെസ്റ്റ് കേസുകൾ ഞങ്ങളുടെ പക്കലുണ്ട് അത് ഞങ്ങൾക്ക് നന്നായി റൺ ചെയ്യേണ്ടതില്ല കാരണം അവർക്ക് ഒരു ബഗ് കണ്ടെത്താനുള്ള സാധ്യത പൂജ്യമാണ് കാരണം അവർ മാറ്റത്തിൽ നിന്ന് ഇൻഡിപെൻഡെന്റ് ആയ ഫീച്ചറുകൾ പരീക്ഷിക്കുന്നു സോഫ്റ്റ്വെയറിന്റെ ചില ഭാഗങ്ങൾ പരിശോധിക്കുന്ന റിഗ്രഷൻ ടെസ്റ്റ് കേസുകൾ ഞങ്ങളുടെ പക്കലുണ്ട് ഇപ്പോൾ നമുക്ക് റിഗ്രഷൻ ടെസ്റ്റ് കേസുകൾ തിരഞ്ഞെടുക്കുന്ന വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനാൽ പ്രധാന റിഗ്രഷൻ ടെസ്റ്റിംഗ് ജോലികൾ റിഗ്രഷൻ ടെസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഘട്ടങ്ങളാണ് വാലിഡ് ആയ ടെസ്റ്റ് കേസുകൾ തിരിച്ചറിയുക എന്നതാണ് ആദ്യ കാര്യം കാരണം ഓരോ മാറ്റത്തിനും ശേഷം ചില ടെസ്റ്റ് കേസുകൾ ഇൻവാലിഡ് ആയി തീരുമെന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ അവ ഡിസ്കർഡ് ചെയ്യേണ്ടി വരും അതിനാൽ ഞങ്ങൾ ആദ്യം വാലിഡ് ആയ ടെസ്റ്റ് കേസുകൾ തിരിച്ചറിയുകയും വാലിഡ് ആയ ടെസ്റ്റ് കേസുകളിൽ നിന്ന് റിഡൻഡെന്റ് ആയ ടെസ്റ്റ് കേസുകൾ തിരിച്ചറിയുകയും അവഗണിക്കുകയും വേണം അത് ഞങ്ങളെ റിഗ്രഷൻ ടെസ്റ്റ് കേസുകൾ തരുകയും അതിനെ റിഗ്രഷൻ ടെസ്റ്റ് സെലക്ഷൻ പ്രോബ്ലം എന്ന് വിളിക്കുകയും ചെയ്യുന്നു റിഗ്രഷൻ ടെസ്റ്റ് കേസുകൾ ആയിരക്കണക്കിന് ആണെങ്കിൽ ഞങ്ങൾ മിനിമൈസേഷൻ ചെയ്യേണ്ടതായി വന്നേക്കാം അവിടെ നിങ്ങൾ ടെസ്റ്റ് കേസുകൾ നീക്കംചെയ്യുന്നു അവ യഥാർത്ഥത്തിൽ ഡൂപ്ലികേറ്റുകൾ അല്ല അധിക ബഗുകൾ കണ്ടെത്തുന്നില്ല അതിനാൽ മിനിമൈസ്ഡ് ടെസ്റ്റ് കേസുകൾ മുഴുവൻ റിഗ്രഷൻ ടെസ്റ്റുകളും നടത്തുന്നത് പോലെ നല്ലതാണ് കൂടാതെ തിരഞ്ഞെടുത്ത റിഗ്രഷൻ ടെസ്റ്റ് കേസുകളിൽ നിന്ന് ഞങ്ങൾ റിഗ്രഷൻ ടെസ്റ്റ് പ്രയോറൈടൈസേഷൻ നൽകാം എററുകൾ കണ്ടെത്താനുള്ള പരമാവധി സാധ്യതയുള്ള റിഗ്രഷൻ ടെസ്റ്റുകൾക്ക് ഏറ്റവും മുൻഗണന നൽകിക്കൊണ്ട് ഞങ്ങൾ അവരെ 1 2 3 4 ആയി മുൻഗണന നൽകാം എന്തുകൊണ്ടാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത് ഞങ്ങൾ മുൻഗണന നൽകേണ്ടതുണ്ട് കാരണം പരിശോധനയ്ക്കിടെ നിങ്ങൾക്ക് റിഗ്രഷൻ ബഗുകൾ നേരത്തെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഡെവലപ്മെന്റ് ടീമിന് ആരംഭിക്കാൻ കഴിയും അത് ഞങ്ങളുടെ ഡെലിവറി സമയം കുറയ്ക്കും ഞങ്ങൾക്ക് നൂറുകണക്കിന് റിഗ്രഷൻ ടെസ്റ്റ് കേസുകൾ ഉണ്ടായേക്കാം അവയെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ ഒരാഴ്ച എടുത്തേക്കാം ആദ്യ ദിവസം തന്നെ ആ ബഗുകൾ കണ്ടെത്താനായാൽ ടെസ്റ്റിംഗിനായി ഡവലപ്മെന്റ് ടീമിനു ആരംഭിക്കാം അതിനാൽ റിഗ്രഷൻ ടെസ്റ്റ് മുൻഗണനയ്ക്ക് പിന്നിലുള്ള ആശയം അതാണ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാമിന്റെ രൂപത്തിൽ ഞങ്ങൾ അതിനെ പ്രതിനിധാനം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം ചേഞ്ച് അനാലിസിസ് നടത്തുകയും അതിനെ അടിസ്ഥാനമാക്കി കോഡിന്റെ ഏത് ഭാഗത്തെ ബാധിച്ചുവെന്നും മാറ്റമില്ലാത്ത കോഡിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നുവെന്നും ഏത് ഭാഗം ഇൻഡിപെൻഡെന്റ് ഉം ഇംപാക്ട്ഡ് ആണെന്നും കണ്ടെത്തുന്നു ഏത് ഭാഗത്താണ് ഇംപാക്ട്ഡ് കോഡും ഈ ഇംപാക്ട്ഡ് കോഡ് റൺ ചെയ്യുന്നതോ എക്സിക്യൂട്ട് ചെയ്യുന്നതോ ആയ ടെസ്റ്റ് കേസുകൾ ഞങ്ങൾ റിഗ്രഷൻ ടെസ്റ്റ് തിരഞ്ഞെടുക്കുകയും തുടർന്ന് ഞങ്ങൾ റിഗ്രഷൻ ടെസ്റ്റുകൾ നടത്തുകയും ഫലങ്ങൾ റിപ്പോർട്ടുചെയ്യുകയും ഫലങ്ങൾ വീണ്ടും പരിശോധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾ പരീക്ഷിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം നമുക്ക് പരിശോധിക്കാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുവെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് വളരെ നല്ല പ്രോഗ്രാമിംഗ് പ്രാക്ടീസുകൾ ഉണ്ടെങ്കിൽ ബഗുകളുടെ സാധ്യത കുറവായിരിക്കും ഉദാഹരണത്തിന് ഇൻഹെറിടെൻസ് എൻക്യാപ്സുലേഷൻ തുടങ്ങിയവ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ വ്യത്യസ്ത സവിശേഷതകൾ അവ വളരെ നല്ല പ്രോഗ്രാമിംഗ് ആശയങ്ങളാണ് അവ ബഗ് റീയൂസ് ക്രമീകരിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ഡെവലപ്മെന്റ് ശ്രമങ്ങൾ കുറയ്ക്കുകയും അതേ സമയം അവ ബഗിന്റെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഞങ്ങൾ യഥാർത്ഥത്തിൽ പരിശോധനയെ സങ്കീർണ്ണമാക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആശ്ചര്യപ്പെടും പ്രൊസീജ്യർ കോഡിൽ നിങ്ങൾക്ക് അറിയാത്ത പുതിയ തരം ബഗ് അവർ അവതരിപ്പിച്ചു അതിനാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോഡിന് ഞങ്ങൾക്ക് വ്യത്യസ്ത പരിശോധന ആവശ്യമാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോഡിലെ പ്രൊസീജ്യറൽ പ്രോഗ്രാമിംഗിനായി ഞങ്ങൾ ഉപയോഗിച്ച അതേ വിദ്യകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് വ്യത്യസ്ത ടെസ്റ്റിംഗ് തന്ത്രങ്ങൾ ആവശ്യമാണ് നമുക്ക് അത് നോക്കാം എന്നാൽ അതിനുമുമ്പ് ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത റിഗ്രഷൻ ടെസ്റ്റിംഗിനെക്കുറിച്ച് ഒരു ചെറിയ ക്വിസ് നടത്താം അതിനാൽ യൂണിറ്റ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ സിസ്റ്റം ടെസ്റ്റിംഗ് എന്നിവയിൽ ബാധകമാകുന്ന റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്നത് യൂണിറ്റ് ടെസ്റ്റിംഗ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സിസ്റ്റം ടെസ്റ്റിംഗ് എന്നിവയ്ക്ക് ബാധകമാകുമോ എന്നതാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഈ മൂന്ന് ടെസ്റ്റിംഗ് അതായത് യൂണിറ്റ് ടെസ്റ്റിംഗ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിനും സിസ്റ്റം ടെസ്റ്റിംഗിനും ഇത് ബാധകമാണ് എന്നതാണ് ഉത്തരം യഥാർത്ഥത്തിൽ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്നത് ടെസ്റ്റിംഗിന്റെ മറ്റൊരു ഡൈമെൻഷൻ ആണ് അതിനാൽ റിഗ്രഷൻ ഒരു ലെവൽ ടെസ്റ്റിംഗിന്റേതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിനാൽ ലെവൽ ഒരു അളവാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്നത് ടെസ്റ്റിംഗിന്റെ മറ്റൊരു ഡൈമെൻഷൻ ആണ് ഇത് എല്ലാ ലെവെലിലുള്ള പരിശോധനകൾക്കും ബാധകമാണ് ഇപ്പോൾ നമുക്ക് ടെസ്റ്റിംഗ് നോക്കാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ എങ്ങനെ പരീക്ഷിക്കാം ഉണ്ടാക്കിയ ഡാറ്റ നോക്കിയാൽ ലഭ്യമായ ഗവേഷണ ഡാറ്റ ഒരു സാധാരണ ഡവലപ്മെന്റ് ഓർഗനൈസേഷൻ അതിന്റെ പരിശ്രമത്തിന്റെ 50 ശതമാനം ടെസ്റ്റിംഗിനും ബാക്കി 50 ശതമാനം സ്പെസിഫിക്കേഷൻ ഡിസൈൻ കോഡിംഗ് മുതലായവയ്ക്കും ചെലവഴിക്കുന്നു കൂടാതെ ടെസ്റ്റിംഗിനായി ഇത്രയും വലിയ എഫോർട്ട് ചെലവഴിക്കുന്നതിന്റെ പ്രധാന കാരണം സോഫ്റ്റ്വെയറിന്റെ ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒരു പരിധിവരെ പരിശോധനയുടെ സമഗ്രതയെക്കുറിച്ച് ഇപ്പോൾ ഉപഭോക്താക്കൾ വളരെ ഗുണമേന്മ നോക്കുന്നവരാണ് അതിനാൽ ഒരു ഓർഗനൈസേഷൻ ബഗുകൾ നിറഞ്ഞ സോഫ്റ്റ്വെയർ പുറത്തിറക്കിയാൽ ഉപഭോക്താക്കൾ ആ ഉൽപ്പന്നം നിരസിക്കുക മാത്രമല്ല അവർ ആ ഓർഗനൈസേഷനിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയുമില്ല അതിനാൽ എല്ലാ ഓർഗനൈസേഷനും ടെസ്റ്റിങ്നായി കാര്യമായ പരിശ്രമങ്ങൾ നടത്തുന്നു ആ പശ്ചാത്തലത്തിൽ ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ നിർദ്ദേശിക്കപ്പെടുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ സ്വാഗതാർഹമായ മാറ്റമായിരുന്നു പ്രാരംഭ വർഷങ്ങളിൽ ഇത് ടെസ്റ്റിങ് എഫോർട്ട് നെ ഗണ്യമായി കുറയ്ക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ചെലവഴിക്കുന്ന 50 ശതമാനം പരിശ്രമം പ്രതീക്ഷിച്ച 20 30 ശതമാനമായി കുറച്ചേക്കാം എന്നാൽ ഇപ്പോൾ നമ്മൾ സ്വയം കണ്ടെത്തുമ്പോൾ ഒബ്ജക്റ്റ് ഒറിയന്റേഷൻ യഥാർത്ഥത്തിൽ ടെസ്റ്റിങ് നെ സങ്കീർണ്ണമാക്കുന്നു കൂടാതെ എഫോർട്ട് കുറയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ എഫോർട്ട് ആവശ്യമായി വന്നേക്കാം പ്രൊസീഡ്യൂറൽ പ്രോഗ്രാമിന് ഇല്ലാത്തതും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾ പരീക്ഷിക്കുന്നതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഇവിടെ നമുക്ക് പുതിയ പ്രശ്നങ്ങൾ പുതിയ തരം ഫോൾട്ട്കൾ ഉണ്ട് അതിനാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾക്ക് പ്രൊസീഡ്യൂറൽ പ്രോഗ്രാം പരിശോധനയിൽ നിലവിലില്ലാത്ത വളരെ ബുദ്ധിമുട്ടുള്ള വെല്ലുവിളികൾ പരീക്ഷിക്കുന്നതിൽ ഉണ്ട് എന്താണ് യൂണിറ്റ് ടെസ്റ്റിങ് എന്നതാണ് ആദ്യത്തെ വെല്ലുവിളി പ്രൊസീഡ്യൂറൽ പ്രോഗ്രാമുകളുടെ സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒരു യൂണിറ്റ് ഒന്നുകിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മൊഡ്യൂൾ ആണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതിനാൽ പ്രൊസീഡ്യൂറൽ പ്രോഗ്രാമുകളിൽ ഞങ്ങൾ യൂണിറ്റുകൾ പരിശോധിക്കുകയും യൂണിറ്റുകൾ സമഗ്രമായി പരിശോധിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഇന്റഗ്രേഷൻ ടെസ്റ്റിലൂടെ ഇന്റർഫേസ് എററുകൾ നീക്കംചെയ്ത് ഞങ്ങൾ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും തുടർന്ന് ഞങ്ങൾ സിസ്റ്റം ടെസ്റ്റിംഗ് നടത്തുന്നു എന്നാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊസീജ്യറിന്റെയും ഒബ്ജക്റ്റ് പ്രോഗ്രാമിന്റെയും അനാലോജിയിൽ യൂണിറ്റ് എന്നത് പ്രൊസീജ്യറൽ പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകളിൽ ഒരു യൂണിറ്റ് ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് ആയിരിക്കാം കാരണം മെത്തേഡുകൾ ഫംഗ്ഷനുകൾക്ക് സമാനമാണ് പക്ഷേ ഞങ്ങൾ കണ്ടെത്തും അല്ല അത് ശരിയല്ല മറ്റ് കാര്യങ്ങൾ എന്തെന്നാൽ ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ എൻക്യാപ്സുലേഷൻ ഇൻഹെറിടെൻസ് പോളിമോർഫിസം ഡൈനമിക് ബൈൻഡിംഗ് എന്നിവയുടെ നല്ല സവിശേഷതകൾ അന്വേഷിക്കും അവർ ടെസ്റ്റിങ്ൽ സഹായിക്കുമോ അവർ ടെസ്റ്റിങ് ലെ ശ്രമം കുറയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണ്ണമാക്കി കൂടുതൽ സമയം ടെസ്റ്റിങ് നു വേണ്ടി ചിലവഴിക്കണ്ടതായി വരും നമുക്ക് ആ പ്രശ്നം അന്വേഷിക്കാം തുടർന്ന് ഇവിടെ പുതിയ തരം ടെസ്റ്റിംഗ് ആയ സ്റ്റേറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് പരിശോധിക്കാം തുടർന്ന് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ പശ്ചാത്തലത്തിൽ ടെസ്റ്റ് കവറേജ് അനാലിസിസ് എന്ന ആശയം എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്ത ഇന്റഗ്രേഷൻ സ്ട്രാറ്റജികൾ എന്താണെന്നും നോക്കാം പ്രൊസീജ്യറൽ പ്രോഗ്രാമിംഗ് ടോപ്പ് ഡൌൺ ബോട്ടം അപ്പ് മറ്റും ഇവിടെ ശരിക്കും ഉചിതമല്ല കാരണം ഇവ യഥാർത്ഥത്തിൽ ഹൈരാർകിക്കൽ ഡിസൈനുകളല്ല വ്യക്തമായ ഡിസൈനുകൾ അല്ല ഇവ പരസ്പരം ഇടപെടുന്ന വസ്തുക്കൾ മാത്രമാണ് അതിനാൽ ഞങ്ങൾക്ക് വ്യത്യസ്ത ഇന്റേഗ്രേഷൻ സ്റ്രാറ്റജികൾ ആവശ്യമാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ ഒരു യൂണിറ്റ് ടെസ്റ്റിംഗ് ഏതാണ് എന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ആദ്യം നമുക്ക് അഡ്രെസ്സ് ചെയ്യേണ്ടത് കാരണം ഇത് ആദ്യം യൂണിറ്റ് ലെവൽ ടെസ്റ്റിംഗ് നടത്തേണ്ട ഏത് ടെസ്റ്റിംഗിന്റെയും അടിസ്ഥാനമാണ് അതിനാൽ ഏത് യൂണിറ്റുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ ഏത് ഘടകങ്ങളാണ് ഞങ്ങൾ ഇൻഡിപെൻഡെന്റ് ആയി പരിശോധിക്കേണ്ടത് തുടർന്ന് കൺവെൻഷണൽ പ്രൊസീജ്യറൽ പ്രോഗ്രാമുകളിൽ ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് യൂണിറ്റ് ഒരു ഫംഗ്ഷൻ ആണ് എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നതുപോലെ ആ മെത്തേഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾക്ക് യഥാർത്ഥത്തിൽ ടെസ്റ്റിങ് ന്റെ അടിസ്ഥാന യൂണിറ്റ് അല്ല അനലോജി എന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലെ ടെസ്റ്റിംഗ് യൂണിറ്റായി ഞങ്ങൾ ഫംഗ്ഷൻ എക്സ്റ്റെൻറ് ചെയ്താൽ ഈ ക്ലെയിം ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് കാണാം വാസ്തവത്തിൽ ഈ ക്ലെയിം ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനം വെയ്ക്കറുടെ ആൻറി കമ്പോസിഷൻ ആക്സിയോം Weyukar's Anticomposition axiom ആണെന്ന് പറയുന്നു ഇൻഡിവിജുവൽ രീതികളുടെ ഏത് അളവിലുള്ള പരിശോധനയും ഒരു ക്ലാസ് തൃപ്തികരമായി പരീക്ഷിക്കപ്പെട്ടുവെന്ന് ഉറപ്പാക്കാൻ കഴിയില്ല അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നോക്കാം അതിനാൽ അതാണ് വെയ്ക്കർ യഥാർത്ഥത്തിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ യൂണിറ്റ് ക്ലാസാണ് ഞങ്ങൾ എല്ലാ ക്ലാസുകളെയും ഐസോലേഷനിൽ പരീക്ഷിക്കുകയും ഒടുവിൽ ആ ക്ലാസുകൾ ഇന്റേഗ്രേറ്റ് ചെയ്യുകയും വേണം അതിനാൽ എന്തുകൊണ്ടാണ് ക്ലാസ് മെത്തേഡ് ടെസ്റ്റ് ചെയ്യാൻ ഒരു നല്ല യൂണിറ്റ് ടെസ്റ്റിംഗും തുടർന്ന് സംയോജനം പ്രവർത്തിക്കാത്തത് അതിനാൽ അതിനുള്ള ഉത്തരം ഞങ്ങൾ മെത്തേഡ് പരീക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിരവധി കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നില്ല എന്നതാണ് ഒരു കാര്യം ഈ രീതിയിലുള്ള ക്ലാസ് ആട്രിബ്യൂട്ടുകൾ വിവിധ മെത്തേഡുകൾക്കിടയിൽ പങ്കിടുന്നു എന്നതാണ് മെത്തേഡുകൾ പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ അവ ടെസ്റ്റ് ചെയ്യുന്നില്ല കൂടാതെ ക്ലാസുകൾക്ക് സാധാരണയായി സ്റ്റേറ്റ് മോഡലുകളുണ്ട് കാരണം അവർ എല്ലാ ക്ലാസുകളിലും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു ഒരു സ്റ്റേറ്റ് മോഡൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ക്ലാസോ ഒബ്ജക്റ്റോ പല സ്റ്റേറ്റുകളിൽ നിലനിൽക്കുമെന്നും നമ്മൾ ഒരു സ്റ്റേറ്റ് ഇൽ ഒരു മെത്തേഡ് പരീക്ഷിച്ചാൽ അത് ഒരു സ്റ്റേറ്റ്ഇൽ ശരിയായി പ്രവർത്തിച്ചേക്കാം എന്നാൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ക്ലാസ് പ്രവർത്തിച്ചേക്കില്ല അതിനാൽ ക്ലാസിന്റെ സ്റ്റേറ്റ് മോഡലും ഒബ്ജക്റ്റുകൾ വിവിധ സ്റ്റേറ്റ് എങ്ങനെ അസ്സ്യൂം ചെയ്യുന്നുവെന്നും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് തുടർന്ന് അവിടെയുള്ള മെത്തേഡ് പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ക്ലാസ് വേരിയബിളുകളിലൂടെ ഞങ്ങൾ മെത്തേഡ് ഇന്റെറാകഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ക്ലാസിന്റെ വിവിധ സ്റ്റേറ്റ്കളിലെ രീതികൾ സ്റ്റേറ്റ്കൾ ടെസ്റ്റ് ചെയ്യുകയും വേണം 1986 ൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ IEEE ഇടപാടുകളിൽ ഈ ഏരിയയിലെ ഒരു ലാൻഡ് മാർക്ക് ഫലമായ വെയ്ക്കറിന്റെ ആന്റി കമ്പോസിഷൻ ആക്സിയം Weyukar's Anti composition axiom വന്നു ഓരോ പ്രോഗ്രാം ഘടകങ്ങളുടെയും മതിയായ പരിശോധന മുഴുവൻ പ്രോഗ്രാമിന്റെയും പര്യാപ്തമായ പരിശോധനയ്ക്ക് മതിയാകില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രമാണം അതിനാൽ ഇൻഡിവിജുവൽ കംപോണൻറ് നിങ്ങൾ പരിശോധിച്ച് അത് വർക്ക് ചെയ്താലും മുഴുവൻ പ്രോഗ്രാമും പ്രവർത്തിക്കുമെന്ന് ഉറപ്പില്ല എന്നു അദ്ദേഹം പറയുന്നു P ഉം q ഉം കംപോണൻറ് ആണെങ്കിൽ p ക്ക് qയിൽ ഉള്ള കോൺടെക്സ്റ്റ് കൂടുതൽ സങ്കീർണ്ണമായ രീതിയിൽ പരിഷ്ക്കരിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഐസോലേഷനിൽ കംപോണൻറ്റുകളുടെ പരിശോധനയ്ക്ക് സ്റ്റബുകൾക്ക് ഇത് ചെയ്യാൻ കഴിയും അതിനാൽ p q എന്നിവയ്ക്ക് ഇന്റെറക്റ്റ് ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം നമുക്ക് അവരെ ഒരുമിച്ച് പരീക്ഷിക്കണ്ടത് ആവശ്യമാണ് അതിനാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾക്കായുള്ള ഈ പ്രമാണത്തിന്റെ വ്യാഖ്യാനം ഇത് പരീക്ഷണ രീതികൾ മാത്രമാണെങ്കിലും അവ സംയോജിപ്പിക്കുന്നത് ശരിയായിരിക്കില്ല ഞങ്ങൾ യൂണിറ്റ് ലെവൽ ആയ ക്ലാസുകൾ പരിശോധിക്കുകയും അവ ഇന്റേഗ്രേറ്റ് ചെയ്യുകയും വേണം അതിനാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾക്കായുള്ള പരീക്ഷണത്തിന്റെ അടിസ്ഥാന യൂണിറ്റാണ് ക്ലാസ്സ് എന്ന ആദ്യ സുപ്രധാന ഫലം ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചറുകളിൽ ചില പ്രധാന സവിശേഷതകൾ നമുക്ക് നോക്കാം അവർക്ക് ടെസ്റ്റിംഗിൽ സഹായിക്കാനാകുമോ അതോ അവ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ ടെസ്റ്റിംഗിന് തടസ്സമാകുമോ എന്ന് നോക്കാം ആദ്യം നമുക്ക് എൻക്യാപ്സുലേഷൻ നോക്കാം നമുക്കറിയാവുന്നതുപോലെ എൻക്യാപ്സുലേഷൻ മെത്തേഡുകളിൽ ഡാറ്റ ഒരുമിച്ച് ഉണ്ടായിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ എൻക്യാപ്സുലേഷൻ എററുകളുടെ ഒരു ഉറവിടമല്ല പക്ഷേ അത് പരിശോധനയ്ക്ക് ഒരു തടസ്സമാണ് എന്തുകൊണ്ടാണ് അത് എൻക്യാപ്സുലേഷൻ കാരണം നമുക്ക് ഒരു ക്ലാസിന്റെ പ്രൈവറ്റ് വേരിയബിളുകൾ നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഒരു ഡീബഗ്ഗർ മൂല്യങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണ് കാരണം ക്ലാസുകളുടെ പ്രൈവറ്റ് വേരിയബിളുകൾ റിപ്പോർട്ടുചെയ്യുന്ന മെത്തേഡ് ഇല്ലാത്തതിനാൽ ഈ പ്രൈവറ്റ് വേരിയബിളുകൾ ആക്സസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അത് മെത്തേഡിലൂടെ ആക്സസ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇത് നേരിട്ട് ആക്സസ് ചെയ്യാനാകില്ല അതിനാൽ ഇത് സങ്കീർണ്ണമാകുന്നു അതിനാൽ ഒരാൾ ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കും നിരവധി പരിഹാരങ്ങൾ സാധ്യമാണ് ഒന്ന് സ്റ്റേറ്റ് റിപ്പോർട്ടിംഗ് മെത്തേഡുകൾ ആണ് അതിനാൽ ഈ പ്രൈവറ്റ് വേരിയബിളുകളുടെ ലോ ലെവൽ പ്രോബുകളുടെ മൂല്യങ്ങൾ മനുവല്ലി പരിശോധിക്കുന്നതിനായുള്ള അധിക മെത്തേഡ് ഒരു ക്ലാസ്സിൽ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ കറെക്റ്റ്നെസ്സ് ടെക്നികുകളുടെ ഫോർമൽ തെളിവുകൾ ശരിക്കും വേരിയബിളുകൾ നോക്കുന്നില്ല മറിച്ച് കറെക്റ്റ്നെസ്സ് ടെക്നികുകളുടെ തെളിവ് നോക്കും എന്നാൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന മാർഗ്ഗം സ്റ്റേറ്റ് റിപ്പോർട്ടിംഗ് മെത്തേഡ്കളാണ് സാധാരണഗതിയിൽ ഇത് ടെസ്റ്റ്ർ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അവർക്ക് സ്റ്റേറ്റ് റിപ്പോർട്ടിംഗ് മെത്തേഡ്കളുണ്ട് അവ എൻക്യാപ്സുലേഷൻ പ്രശ്നം മറികടക്കുകയും പ്രൈവറ്റ് വേരിയബിളുകളുടെ മൂല്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകളുടെ മറ്റൊരു പ്രധാന സവിശേഷത ആയ ഇൻഹെറിടെൻസ് നമുക്ക് നോക്കാം ഇൻഹെറിടെൻസ് ന്റ്റെ ഒരു പ്രധാന ഗുണം ഒരു ക്ലാസ് നന്നായി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സബ് ക്ലാസ്സിൽ പുതിയ സവിശേഷതകൾ ചേർക്കാനാകുമെന്നും അതിനാൽ വർക്കിംഗ് കോഡ് റീയൂസ് ചെയ്യുന്നുവെന്നും അത് എല്ലാ കോഡും എഴുതേണ്ടതില്ലെന്നും നമുക്ക് അറിയാം ഞങ്ങൾ ക്ലാസ് വേരിയബിളുകളുടെ കുറച്ച് മെത്തേഡ്കൾ ചേർക്കുന്നു എന്നാൽ ഇവിടെ ഉയർന്നുവരുന്ന ചോദ്യം ഒരിക്കൽ നമുക്ക് ഒരു ക്ലാസ്സ് ഡിറൈവ് ചെയ്യുകയും ആൻസിസ്റ്റർ ക്ലാസുകളിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത നിരവധി മെത്തേഡ്കൾ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസിൽ പരീക്ഷിക്കപ്പെടുകയും വേണം അതിശയകരവും നിർഭാഗ്യവശാൽ ഇൻഹെറിറ്റഡ് ഇൻഹെറിടെൻസ് മെത്തേഡ്കൾ പരീക്ഷിക്കേണ്ടത് നിർബന്ധമാണ് ഇൻഹെറിറ്റഡ് മെത്തേഡ്കൾ വീണ്ടും പരിശോധിക്കുന്നത് ഒരു എക്സപ്ഷൻ അല്ല അതൊരു നിയമം ആണ് എന്തുകൊണ്ടെന്നാൽ ഇവയെല്ലാം ബേസ് ക്ലാസിൽ പരീക്ഷിച്ച മെത്തേഡ്കൾ നന്നായി പ്രവർത്തിക്കുന്നതിനാലാണ് അവ നമുക്ക് ഡീറൈവ്ഡ് ക്ലാസിൽ ഇൻഹെറിറ്റഡ് ആയത്കൊണ്ട് ഡീറൈവ്ഡ് ക്ലാസ്സിൽ നമ്മൾ എന്തിനാണ് അവയെ വീണ്ടും നന്നായി പരീക്ഷിക്കേണ്ടത് നമുക്ക് ആ പ്രശ്നം പരിശോധിക്കാം അതിനാൽ ഇതൊരു ബേസ് ക്ലാസ് ലൈബ്രറി അംഗമാണ് ഞങ്ങൾ ക്ലാസുകളും ഡെറിവേഷന്റെ നിരവധി ശ്രേണികളും രീതികളും ആട്രിബ്യൂട്ടുകൾ ഇവിടെ വിദ്യാർത്ഥികളിൽ ലഭ്യമാകും തുടർന്ന് വിദ്യാർത്ഥികൾ കൂടുതൽ ആട്രിബ്യൂട്ടുകളും മെത്തേഡ്കളും ആകുന്നു ഇതെല്ലാം ചിൽട്രെൻ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തതാണ് സബ് ക്ലാസിലെ ഉപയോഗത്തിന്റെ പുതിയ കോൺടെക്സ്റ്റ് കാരണം യഥാർത്ഥത്തിൽ വീണ്ടും പരിശോധന ആവശ്യമാണ് അതിനാൽ അത് അടിസ്ഥാനപരമായി ആന്റി കോമ്പോസിഷൻ ആക്സിയം ആണ് ഉപയോഗത്തിന്റെ പുതിയ കോൺടെക്സ്റ്റ് ഇൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചില ഉദാഹരണങ്ങൾക്കൊപ്പം ഞങ്ങൾ ഇത് കാണും എന്നാൽ ഒരു മെത്തേഡ് മുകളിലെ ലെവെലിൽ ശരിയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അത് താഴ്ന്ന ലെവെലിൽ പെരുമാറുമെന്ന് ഉറപ്പുനൽകില്ലെന്ന് നമുക്ക് പറയാം ഇത് ഇവിടെയുള്ള കോഡ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം ക്ലാസ്സ് Aയിൽ ഈ വേരിയബിൾ x മൂല്യം 200 ഉണ്ടായിരുന്നു ഈ വേരിയബിളിലെ മാറ്റമില്ലാത്ത അല്ലെങ്കിൽ റിക്വയർമെന്റ് x എപ്പോഴും 100 ൽ കൂടുതലായിരിക്കണം തുടർന്ന് ഞങ്ങൾക്ക് ഇവിടെ നിരവധി മെത്തേഡ്കളുണ്ടായിരുന്നു ഞങ്ങൾ ഈ വേരിയബിൾ ഉപയോഗിക്കുന്നു ക്ലാസ്സ് രൂപകൽപ്പന ചെയ്ത മെത്തേഡും അവ ശരിയായി പ്രവർത്തിക്കുന്നതും അവരൊക്കെ മാറ്റമില്ലാതെ നിലനിൽക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ചില പ്രോഗ്രാമർമാർ ക്ലാസ് A വിപുലീകരിച്ചു അദ്ദേഹം കോഡ് പരിശോധിച്ചില്ല ഇവിടെ അദ്ദേഹം അധിക മെത്തേഡ് അവതരിപ്പിച്ചു അവന് m 1 ആവശ്യമാണ് അവിടെ അവൻ x എന്ന വേരിയബിൾ സജ്ജമാക്കി ഇപ്പോൾ ഞങ്ങൾ A Bയിലേക്ക് നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻഹെറിറ്റ് ചെയ്ത രീതികൾ m മുതലായവ മുമ്പ് പ്രവർത്തിക്കുന്നവ പ്രവർത്തിക്കില്ല കാരണം ഇൻവേറിയന്റ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇത് ഒരു ലളിതമായ ഉദാഹരണമാണ് നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം A ക്ലാസ്സിന് ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു അതിൽ ബോഡി ആണ് മറ്റൊരു മെത്തേഡ് m 2 m 2 എന്നിവ ക്ലാസ്സ് Aയിലും നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ m m 2 എന്നിവ ക്ലാസ്സ് A m 2 എന്നിവയിൽ നിർവചിച്ചിരിക്കുന്നു അതിനെ m എന്ന് വിളിക്കുന്നു ഇപ്പോൾ ക്ലാസ് B A വിപുലീകരിക്കുന്നു പക്ഷേ അതിനു ശേഷം B എന്ന മെത്തേഡ് മറികടന്നു ഇപ്പോൾ m ക്ലാസ് B യുടെ കോൺടെക്സ്റ്റ് ഇൽ വിളിക്കുന്നു അപ്പോൾ m ഇവിടെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നു ഞങ്ങൾ m നെ വിളിക്കുന്നു A ക്ലാസ്സിൽ എല്ലാം ശരിയായി പ്രവർത്തിക്കുകയായിരുന്നു ഇപ്പോൾ m എന്ന് വിളിക്കുമ്പോൾ ക്ലാസ് B ഒബ്ജക്റ്റ് നു ആയി ടെസ്റ്റ് ചെയ്തു ഇത് ക്ലാസ് B യുടെ കോൺടെക്സ്റ്റ് ഇൽ ആണ് വിളിക്കുന്നത് അതിനാൽ പോളിമോർഫിസം കാരണം കോൾ m ഇപ്പോൾ A dot m 2 എന്ന് വിളിക്കുന്നതിനുപകരം B dot m2 എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് m2 ഉപയോഗിച്ച് നന്നായി പ്രവർത്തിക്കുന്നു എന്നാൽ ഇപ്പോൾ അതേ m B ഡോട്ട് m2 എന്ന് വിളിക്കുന്നു അതിനാൽ അത് പരാജയപ്പെടാം തീർച്ചയായും ഇപ്പോൾ ഞങ്ങൾക്ക് മെത്തേഡ് ഓവെർറൈഡിങ് ഉണ്ട് ഞങ്ങൾ ആ ബേസ് മെത്തേഡ് ക്ലാസ് ഓവെർറൈഡ് ചെയ്ത് ഒരു പുതിയ മെത്തേഡ് എഴുതി ഞങ്ങൾ പരീക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ഇൻഹെറിറ്റഡ് മെത്തേഡ് ഉം ഓവർറൈഡൻ മെത്തേഡ് ഉം പരീക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ബേസ് ക്ലാസ്സിൽ മെത്തേഡ്കൾ പരീക്ഷിക്കപ്പെട്ടു എന്ന യഥാർത്ഥ പ്രതീക്ഷ ഡിറൈവ്ഡ് ക്ലാസിൽ പരീക്ഷിക്കേണ്ടതില്ല ബേസ് ക്ലാസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത എല്ലാ മെത്തേഡ് കളും ഞങ്ങൾ പരീക്ഷിക്കേണ്ടതുണ്ട് ഈ സെഷനിൽ ഞങ്ങൾക്ക് സമയമില്ല അടുത്ത സെഷനിൽ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം എങ്ങനെ പരീക്ഷിക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് തുടരും